ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്ലാസിലേക്ക് വീണ്ടും സ്വാഗതം എന്റെ പേര് ആരാധന മാലിക് ഈ കോഴ്സിൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ പേ ഇൻസെന്റീവ് സിസ്റ്റങ്ങൾ എന്നിവയെക്കുറിച്ചാണ് സംസാരിച്ചത് വ്യക്തികൾക്കുള്ള ശമ്പളവും പ്രോത്സാഹന സംവിധാനവും ഞങ്ങൾ ചർച്ച ചെയ്തു ഇനി നമുക്ക് ഇവിടെ ചില കാര്യങ്ങൾ വീണ്ടും പരിശോധിക്കാം പെർഫോമൻസ് ഇൻസെന്റീവുകൾക്കുള്ള പ്രോത്സാഹനങ്ങളെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു എക്സിക്യൂട്ടീവുകൾക്കുള്ള പ്രോത്സാഹനത്തെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു ഇത് നിങ്ങളോട് പൂർണ്ണമായി വിശദീകരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചില്ല അതിനാൽ ഇത് പൂർത്തിയാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും മുതിർന്ന എക്സിക്യൂട്ടീവുകൾക്കുള്ള ദീർഘകാല പ്രോത്സാഹന പദ്ധതികൾ എങ്ങനെ എന്തുകൊണ്ട് ആവശ്യമാണെന്നും അവ എങ്ങനെ നടപ്പാക്കണമെന്നും അറിയേണ്ടതുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഹ്രസ്വകാല പ്രോത്സാഹനങ്ങൾ ഹ്രസ്വകാല ഉൽപ്പാദനക്ഷമതയുടെ ഫലമായതിനാൽ അവയുടെ മൂല്യം ഹ്രസ്വകാലമാണ് ദീർഘകാലത്തേക്ക് കമ്പനിയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ വളരെ ഉയർന്ന പങ്കാളിത്തമുള്ള മുതിർന്ന എക്സിക്യൂട്ടീവുകൾക്ക് ഹ്രസ്വകാല പ്രോത്സാഹനങ്ങൾ പോരാ അവർക്ക് കൂടുതൽ എന്തെങ്കിലും നൽകേണ്ടതുണ്ട് ഞങ്ങൾ അവരെ കമ്പനിയുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് കാരണം അവർ ഓർഗനൈസേഷനിൽ ഉയർന്ന ഓഹരികളുള്ളതിനാൽ അവർ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു അതിനാൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഓർഗനൈസേഷനിൽ ഉയർന്ന പങ്കാളിത്തമുള്ള കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന മുതിർന്ന എക്സിക്യൂട്ടീവുകൾക്ക് പ്രോത്സാഹനത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിന് ദീർഘകാല പ്രോത്സാഹനങ്ങൾക്കായി ഞങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് പിന്നീട് ദീർഘകാല പദ്ധതികളും മുതിർന്ന മാനേജ്മെന്റിന് സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നു അതിനാൽ ഞങ്ങൾ അവർക്ക് ദീർഘകാല പ്രോത്സാഹനങ്ങൾ നൽകുമ്പോൾ ദീർഘകാല പ്രോത്സാഹനങ്ങൾ അവർക്ക് നൽകുന്ന പ്രോത്സാഹനങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഞങ്ങൾ ഉറപ്പുനൽകുന്നു അത് ഒരു നിശ്ചിത കാലയളവിനുശേഷം ഫലത്തിലേക്ക് വരുന്നു അവ കൂടുതൽ മൂല്യമുള്ളവയാണ് മാത്രമല്ല അവ എക്സിക്യൂട്ടീവുകൾക്ക് കൂടുതൽ അർത്ഥവത്തായതായി കാണപ്പെടുകയും ചെയ്യുന്നു അതിനാൽ ആളുകൾക്ക് ഓർഗനൈസേഷനുമായി പ്രത്യേകിച്ച് മുതിർന്ന മാനേജ്മെന്റുമായി സ്ഥിരത അനുഭവപ്പെടുന്നു പുതിയ വിപണികൾ തുറക്കുകയും പഴയവ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന പുതിയ പ്രോസസ്സ് പ്ലാന്റുകളുടെയും ഉൽപ്പന്നങ്ങളുടെയും വികസനം അവർ സുഗമമാക്കുന്നു ലാഭത്തിലേക്കുള്ള ഹ്രസ്വകാല സംഭാവനയെക്കാൾ തന്ത്രപരമായ നേട്ടങ്ങൾ രൂപകൽപ്പന ചെയ്യുക അതിനാൽ ദീർഘകാല പ്രോത്സാഹനങ്ങൾ സാധാരണയായി ഓർഗനൈസേഷന്റെ ദീർഘകാല തന്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുറച്ച് സമയത്തിന് ശേഷം നിങ്ങളുടെ മാനേജ്മെന്റ് ടീമിൽ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നവർക്കായി നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നു മാനേജ്മെന്റ് ടീം എന്നത് ഓർഗനൈസേഷൻ നടത്തുന്ന ആളുകളാണ് അതിനാൽ ദീർഘകാല തന്ത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആരാണ് ആസൂത്രണം ചെയ്ത ചുമതലകൾ നിർവഹിക്കാൻ പോകുന്നതെന്നും എങ്ങനെ ഓർഗനൈസേഷൻ പ്രവർത്തിപ്പിക്കുമെന്നും അറിയുന്നത് തന്ത്രത്തിൽ ഉൾപ്പെടുന്നു ഒരു സീനിയർ എക്സിക്യൂട്ടീവ് ദീർഘകാലത്തേക്ക് ഒരു സ്ഥാനത്ത് തുടരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പദ്ധതികൾ ഫലപ്രാപ്തിയിലെത്തുന്നത് കാണുകയും ആ പദ്ധതികൾ വിലയിരുത്തുകയും ഓർഗനൈസേഷന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ എങ്ങനെയെങ്കിലും നേടുന്നതിനായി അവ കൂടുതൽ വികസിപ്പിക്കുകയും ചെയ്യുന്നു ആസൂത്രണം ചെയ്യാൻ എളുപ്പമാണ് കാര്യങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പ്രക്രിയകളുടെയും ഫലങ്ങളുടെയും ഉടമസ്ഥാവകാശം ആളുകൾക്ക് ഓർഗനൈസേഷനിൽ ഉയർന്ന ഓഹരിയുണ്ടെങ്കിൽ അവർ പ്രക്രിയകൾ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് അവർ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധ്യതയുള്ള ഈ പ്രക്രിയകളുമായി ഒരു ബന്ധം അനുഭവപ്പെടുന്നതായി അവർക്ക് തോന്നിയേക്കാം അതിനാൽ ഓർഗനൈസേഷന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പ്രക്രിയകളുടെ ഉടമസ്ഥാവകാശം അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് അതുകൊണ്ടാണ് മുതിർന്ന എക്സിക്യൂട്ടീവുകൾക്ക് ദീർഘകാല പ്രോത്സാഹനത്തിനായി ഞങ്ങൾക്ക് ദീർഘകാല ലക്ഷ്യങ്ങൾ ഉള്ളത് ലോവർ ലെവൽ ജീവനക്കാർക്കുള്ള പ്രോത്സാഹനങ്ങൾ ഞങ്ങൾ വർക്ക് ലോഡ് സ്റ്റാൻഡേർഡ് സജ്ജീകരിക്കുന്നു മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തം ഇതിൽ ഒരു ചലന പഠനം നടത്തുന്നതിന് തൊഴിൽ വിശകലനം വഴി ജോലി വിവരിക്കുക എന്നതാണ് ഇത് ജോലി യഥാർത്ഥത്തിൽ എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു ഒരു ജോലി എങ്ങനെ ചെയ്യപ്പെടുന്നു എന്നതിന്റെ ഘട്ടം ഘട്ടമായുള്ള നടപടിക്രമം നിങ്ങൾക്ക് അറിയാമെന്ന് തീരുമാനിക്കുന്നു ഒരു പ്രത്യേക ജോലി ചെയ്യാൻ എത്ര സമയമെടുക്കുമെന്ന് സമയ പഠനം നടത്തുകയും ചെയ്യുന്നു ഫ്രണ്ട്ലൈൻ ജീവനക്കാർ ചെയ്യുന്ന ജോലികൾ സാധാരണയായി വളരെ ആവർത്തിച്ചുള്ളതാണ് ഫ്രണ്ട്ലൈൻ ജീവനക്കാരുടെ താഴ്ന്ന തലത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട് അവർക്ക് ചെറിയ തൊഴിൽ ചക്രം ഉണ്ട് അവർക്ക് വ്യക്തമായ അളക്കാവുന്ന ഔട്ട്പുട്ട് ഉണ്ട് ഓർഗനൈസേഷൻ നിർമ്മിക്കുന്ന ഉൽപ്പന്നത്തിന്റെയോ സേവനത്തിന്റെയോ തരം സേവന വിതരണ രീതി സേവനത്തിന്റെ അളവ് കൂടാതെഅല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ അളവ് നിയമപരവും സാമൂഹികവുമായ സമ്മർദ്ദങ്ങൾ ഉൾപ്പെടെയുള്ള സംഘടനാ ആവശ്യങ്ങൾ എന്നിവ അവരെ ബാധിക്കുന്നു അതിനാൽ പ്രോത്സാഹനങ്ങൾ ഈ വർക്ക്ലോഡ് മാനദണ്ഡങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ഞങ്ങൾ ജോലിഭാരത്തിന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും അവർ ചെയ്യുന്ന ജോലിയുടെ ഓരോ ഘട്ടത്തിലും അവർ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും താഴത്തെ നിലയിലുള്ള ജീവനക്കാർക്ക് പ്രോത്സാഹനം നൽകാനും ഞങ്ങൾ പദ്ധതിയിടുന്നു ഇന്ന് ഞാൻ ആസൂത്രണം ചെയ്ത കാര്യത്തിലേക്ക് നമുക്ക് പോകാം ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ ചെയ്തത് ഇന്ന് നമ്മൾ ടീം ഇൻസെന്റീവുകളെ കുറിച്ച് സംസാരിക്കും വ്യക്തികൾക്ക് നൽകുന്ന വ്യക്തിഗത ഇൻസെന്റീവുകളെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു അത് ഒരു ഉദ്ദേശ്യത്തോടെ ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുന്ന ആളുകളുടെ ടീമുകൾക്ക് നൽകുന്നു ഒരു ടീം എന്നത് ഒരു ലക്ഷ്യമുള്ള ഒരു ഗ്രൂപ്പാണ് അതിനാൽ നിങ്ങൾ എങ്ങനെയാണ് ടീമിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ടീമിന് ആനുകൂല്യങ്ങൾ നൽകുന്നതിന്റെ ടീമിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഗുണങ്ങൾ ലൈൻ തൊഴിലാളികൾക്ക് അവശ്യ സേവനങ്ങൾ നൽകുന്ന തൊഴിലാളികൾക്ക് പ്രതിഫലം നൽകുന്നത് സാധ്യമാക്കുന്നു എന്നാൽ സ്ഥിരമായ അടിസ്ഥാന വേതനം മാത്രം നൽകുന്ന പരോക്ഷ തൊഴിലാളികൾക്ക് ഇത് പ്രതിഫലം നൽകുന്നു അതിനാൽ ഞങ്ങൾ ടീമിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഞങ്ങൾ സഹകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു മത്സരത്തെയല്ല ഞങ്ങൾ തൊഴിലാളികൾക്കിടയിലുള്ള സഹകരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ടീമിന് മൊത്തത്തിൽ ഞങ്ങൾ ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യുന്നു വ്യക്തിഗത ആളുകളുടെ സംഭാവന വളരെ പ്രധാനമായി കാണണമെന്നില്ല പ്രത്യേകിച്ച് സപ്പോർട്ട് സ്റ്റാഫുകളുടേത് വിദ്യാർത്ഥികളിലൊരാൾ എന്നോട് ഒരു ഫോറത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഞാൻ അതിനോട് പ്രതികരിച്ചോ അല്ലെങ്കിൽ ഒരുപക്ഷേ ഇത് ഒരു മെയിലാണോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്തായാലും ഞാൻ ഇപ്പോൾ അതിനോട് പ്രതികരിക്കുന്നു ചോദ്യം ഇതായിരുന്നു ലൈൻ വർക്കറും സ്റ്റാഫ് വർക്കറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സ്റ്റാഫ് വർക്കർമാർ പ്രത്യേകിച്ചും നിങ്ങൾക്ക് ചുറ്റും എല്ലാ ഓട്ടവും നടത്തുന്ന ആളുകളാണ് നിങ്ങളുടെ ഓഫീസുകളിൽ പരിചാരകരുണ്ട് അതിനാൽ എല്ലാ ട്രേഡുകളുടെയും ജാക്ക് ആയ നിങ്ങളുടെ പേപ്പറുകൾ ഒരു ഓഫീസിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്ന ഫോട്ടോകോപ്പി പേപ്പറുകൾ നൽകുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള ഓഫീസ് സാധനങ്ങൾ നൽകുന്ന വീണുപോയ ഒരു സ്ക്രൂ ശരിയാക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എല്ലാ ഓർഗനൈസേഷനിലും സപ്പോർട്ട് സ്റ്റാഫ് ഉണ്ട് അവർക്ക് വ്യക്തമായ ജോലി സ്പെസിഫിക്കേഷനുകളൊന്നുമില്ല അവർ അവരുടെ സഹായ ഹസ്തങ്ങൾ ചെയ്യാൻ പറഞ്ഞതെല്ലാം ചെയ്യുന്നു അവരെ കൂടാതെ ഓർഗനൈസേഷന് പ്രവർത്തിക്കാൻ കഴിയില്ല ഇവർ ഫ്രണ്ട്ലൈൻ സ്റ്റാഫ് ജീവനക്കാരാണ് ജോലികൾ വ്യക്തമായി വ്യക്തമാക്കിയ മുൻനിര തൊഴിലാളികൾക്ക് നൽകുന്ന പ്രോത്സാഹനങ്ങളാൽ അവർക്ക് പ്രയോജനം ലഭിക്കുന്നില്ല എന്നാൽ ഞങ്ങൾ ടീം ഇൻസെന്റീവുകൾ സംഘടിപ്പിക്കുമ്പോൾ എല്ലാ സ്റ്റാഫുകളേയും ഞങ്ങൾ പറയുന്നു കാരണം ഈ ഓഫീസ് വളരെ മനോഹരമായി പ്രവർത്തിക്കുന്നതിനാൽ ഈ ഓഫീസിലെ സപ്പോർട്ട് സ്റ്റാഫിന് മൊത്തത്തിൽ ഒരു സമ്മാനം നൽകും അതുവഴി അവർക്ക് അവർ ചെയ്യുന്ന പ്രയത്നത്തിന് പ്രതിഫലം ലഭിക്കും പക്ഷേ വ്യക്തമായി അളക്കാൻ കഴിയാത്തതോ ദൃശ്യമോ അല്ലാത്തതോ ആയ പ്രയത്നങ്ങൾ കാര്യമായി കാണുന്നില്ല ടീം ഇൻസെന്റീവുകളുടെ പോരായ്മകൾ ഇവയാണ് ഒന്നാം നമ്പർ ജീവനക്കാർ വളരെയധികം ഉൽപ്പാദിപ്പിച്ചാൽ മാനേജ്മെന്റ് ജീവനക്കാർക്കുള്ള നിരക്ക് കുറയ്ക്കുമെന്ന ഭയം അതിനാൽ ഒരു വലിയ പോരായ്മ എന്തെന്നാൽ നിങ്ങൾ ടീമിനെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പ്രോത്സാഹനങ്ങൾ നൽകുന്നതിനുപകരം നിങ്ങൾ വളരെയധികം ഉൽപ്പാദിപ്പിച്ചാൽ മാനേജ്മെന്റ് അവരുടെ ശമ്പളം വെട്ടിക്കുറച്ചേക്കുമെന്ന് ആളുകൾക്ക് തോന്നുന്നു ടീമുകൾ തമ്മിൽ മത്സരമുണ്ട് വളരെയധികം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ടീമിന് വീണ്ടും വീണ്ടും പ്രോത്സാഹനങ്ങൾ ലഭിക്കുന്നു അതിനാൽ ഞങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ചെലവഴിക്കുന്ന പണത്തിന് നഷ്ടപരിഹാരം നൽകാനാണ് നിങ്ങൾ ഞങ്ങൾക്ക് ഇത്രയധികം ആനുകൂല്യങ്ങൾ നൽകുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നതെന്തും നഷ്ടപരിഹാരമായി അടിസ്ഥാന ശമ്പളം വെട്ടിക്കുറച്ചേക്കാം കൂടാതെ ടീമുകൾക്കിടയിൽ മത്സരം ഉണ്ടാകാം ന്യായമായതോ അന്യായമോ ആയ മാർഗങ്ങളിലൂടെ ഒരു ടീം മറ്റൊന്നിനെ മറികടക്കാൻ ശ്രമിച്ചേക്കാം ന്യായമായ മാർഗത്തിലൂടെയെങ്കിൽ അത് സ്ഥാപനത്തെ സഹായിക്കുന്നു എന്നാൽ മത്സരം അന്യായമാകുമ്പോൾ അത് അനാരോഗ്യകരമാകുമ്പോൾ അത് സ്ഥാപനത്തിന് ഒരു പ്രശ്നമായി മാറുന്നു ടീമിന്റെ ഔട്ട്പുട്ടിൽ തൊഴിലാളികളുടെ വ്യക്തിഗത സംഭാവനകൾ കാണാനുള്ള കഴിവില്ലായ്മ അവർ ചെയ്യുന്ന കാര്യങ്ങളും അത് ടീമിനെ എങ്ങനെ സഹായിക്കുന്നു എന്നതും തമ്മിലുള്ള ബന്ധം ആളുകൾ കാണുന്നില്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലി തുടരാൻ അവർ അത്ര പ്രചോദിതരല്ല അതുകൊണ്ട് തന്നെ ടീമിന് നേട്ടമുണ്ടാകുമെന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പോരായ്മ എല്ലാ ടീമിലും നിങ്ങൾക്ക് വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം കൂടാതെ നിങ്ങൾക്ക് ഫ്രീ റൈഡർമാരും കഠിനാധ്വാനം ചെയ്യാത്തവരും ആ ടീമിന് നൽകുന്ന ആനുകൂല്യങ്ങൾ എടുക്കുകയും ചെയ്യാം നിങ്ങൾ ടീം പ്രോത്സാഹനങ്ങൾ മാത്രം നൽകുകയും വ്യക്തിഗത പ്രോത്സാഹനങ്ങൾ നൽകാതിരിക്കുകയും ചെയ്താൽ അത് മെച്ചപ്പെടുത്താനാകും പിന്നെ ഞങ്ങൾക്ക് സംഘടനാതലത്തിലുള്ള പ്രോത്സാഹനങ്ങളുണ്ട് ഓർഗനൈസേഷൻ വൈഡ് ഇൻസെന്റീവ് എന്നത് എല്ലാ ജീവനക്കാർക്കും അവരുടെ ഔട്ട്പുട്ട് പരിഗണിക്കാതെ അവർ ചെയ്യുന്ന ജോലി പരിഗണിക്കാതെ അവർ ഓർഗനൈസേഷനിൽ എത്ര വ്യക്തിഗത സംഭാവന അല്ലെങ്കിൽ ടീം സംഭാവന ചെയ്യുന്നു എന്നത് പരിഗണിക്കാതെ നൽകുന്ന പ്രോത്സാഹനങ്ങളെ സൂചിപ്പിക്കുന്നു അതിനാൽ സ്ഥാപനം ലാഭമുണ്ടാക്കുകയാണെങ്കിൽ മുൻനിര തൊഴിലാളികൾ മുതൽ സിഇഒ വരെയുള്ള എല്ലാവർക്കും ഒരു ഷെയർ ലഭിക്കുകയും ചെയ്യുന്നു അതിനാൽ കൂടുതൽ ഉൽപ്പാദനക്ഷമമാകുന്നതിന് ഓർഗനൈസേഷനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം ലാഭം പങ്കിടലാണ് വാർഷിക ലാഭത്തിന്റെ ഒരു ശതമാനം ജീവനക്കാർക്ക് വർഷം തോറും വിതരണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ലാഭം പങ്കിടൽ ഉദാഹരണത്തിന് ലാഭത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു വർഷത്തിൽ 100 കോടി ഉണ്ടാക്കുന്നു അതിനാൽ ഞാൻ 50 കോടി സൂക്ഷിക്കുമെന്നും ബാക്കി 50 കോടി ജീവനക്കാർക്ക് സംഘടനയിലെ ഓഹരിയനുസരിച്ച് വിതരണം ചെയ്യുമെന്നും നിങ്ങൾ പറയുന്നു അതിനാൽ ലാഭത്തിന്റെ ഒരു ശതമാനം നിങ്ങൾ എല്ലാവർക്കും നൽകുന്നു അതിനാൽ നിങ്ങൾ തൊഴിലാളികൾക്കിടയിൽ വിതരണം ചെയ്യാൻ ശ്രമിക്കുന്ന 50 കോടി ലാഭത്തിന്റെ ഒരു ഭാഗം ഓരോ ജീവനക്കാരനും ലഭിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഓർഗനൈസേഷൻ ഇത്രയധികം ഉൽപ്പാദിപ്പിച്ചതും എല്ലാം കൃത്യമായി നിരത്തിയതും നിങ്ങൾ കാരണമാണെന്ന് സാധാരണയായി നിങ്ങൾക്ക് തോന്നുന്നു ഗെയിൻ ഷെയറിംഗ് എന്നത് ഉൽപാദനക്ഷമതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് പലതരത്തിലാണ് ഇത് കാൽ വർഷത്തിലോ അർദ്ധ വാർഷികത്തിലോ ആയിരിക്കാം കാൽ വർഷത്തിന് ശേഷം എന്നാൽ ഓരോ 3 മാസത്തിനും ശേഷം എന്നാണ് അർദ്ധ വാർഷികം എന്നാൽ അർദ്ധ എന്നാൽ പകുതി വാർഷികം എന്നാൽ വർഷം അങ്ങനെ പങ്കാളിത്ത മാനേജ്മെന്റിലൂടെയും സഹകരണത്തിലൂടെയും പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുന്നതിന് ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഇൻറർനെറ്റിലേക്ക് തിരികെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ലാഭം പങ്കിടലും നേട്ടം പങ്കിടലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ കണ്ടെത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദയവായി നിങ്ങളുടെ പ്രതികരണങ്ങൾ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാൻ മടിക്കേണ്ടതില്ല ഇതൊരു മൂല്യനിർണ്ണയ എക്സസൈസ് അല്ല ഈ കോഴ്സിൽ വളരെയധികം താൽപ്പര്യമുള്ളവരുടെ സർഗ്ഗാത്മക രസം ഒഴുകാൻ വേണ്ടി മാത്രമാണിത് നിങ്ങൾ കൂടുതൽ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കൂടാതെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് വിവരങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ആഴത്തിൽ പോകാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം ഫോറത്തിലെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി നൽകും ലാഭം പങ്കിടലും ഓർഗനൈസേഷനുവേണ്ടിയുള്ള പ്രോത്സാഹനത്തിന്റെ പങ്കിടലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പട്ടികപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങൾ എന്താണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം ജീവനക്കാരുടെ സ്റ്റോക്ക് ഉടമസ്ഥാവകാശ പദ്ധതികൾ ആളുകൾക്ക് സംഘടനാപരമായ പ്രോത്സാഹനങ്ങൾ നൽകുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് ജീവനക്കാരുടെ ഓഹരി ഉടമസ്ഥാവകാശ പദ്ധതികളുടെ കാരണങ്ങൾ ലയനങ്ങളും ഏറ്റെടുക്കലുകളുമാണ് പണം കടം വാങ്ങുന്നതിനുള്ള ചെലവേറിയ മാർഗമാണിത് ഇത് ജീവനക്കാരുടെ ഉടമസ്ഥതയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഓർഗനൈസേഷനിൽ തങ്ങൾക്ക് ഒരു പങ്കാളിത്തമുണ്ടെന്ന് ജീവനക്കാർക്ക് തോന്നുന്നു ഇത് ജീവനക്കാരുടെ ഉടമസ്ഥാവകാശം വർദ്ധിപ്പിക്കുകയും ജീവനക്കാർക്ക് അധിക ആനുകൂല്യം നൽകുകയും ചെയ്യുന്നു ജീവനക്കാരുടെ ഓഹരി ഉടമസ്ഥതയിലുള്ള പ്രോഗ്രാമുകളുടെ വിജയത്തിനുള്ള വ്യവസ്ഥകൾ പ്ലാനിലേക്കുള്ള കമ്പനിയുടെ വലിയ സംഭാവനകളാണ് അതിനാൽ ജീവനക്കാരുടെ സ്റ്റോക്ക് ഉടമസ്ഥത പ്ലാനിൽ ഓർഗനൈസേഷനിൽ നിന്നുള്ള ഒരു പ്രധാന സംഭാവന ഉൾപ്പെടുന്നു അതിൽ ജീവനക്കാരുടെ ഉടമസ്ഥതയോടുള്ള മാനേജ്മെന്റിന്റെ പ്രതിബദ്ധതയും ഉൾപ്പെടുന്നു ജീവനക്കാർ ഓർഗനൈസേഷന്റെ ഭാഗ ഉടമകളാകാൻ പോകുന്നുവെന്ന് മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തണം അല്ലാത്തപക്ഷം ഈ പ്ലാൻ വിജയിക്കാനാവില്ല ഓർഗനൈസേഷന്റെ തീരുമാനമെടുക്കൽ പ്രക്രിയകളിൽ ജീവനക്കാരെ ഉൾപ്പെടുത്തേണ്ടതും ആവശ്യമാണ് അവർ ഭാഗ ഉടമകളാകാൻ പോകുകയാണെങ്കിൽ ഓർഗനൈസേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഓർഗനൈസേഷന്റെ പ്രധാന തീരുമാനങ്ങളിലും അവർക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരിക്കണം ആശയവിനിമയത്തിൽ ഒരു സുതാര്യത ആവശ്യമാണ് പ്രത്യേകിച്ച് ജീവനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ സ്ഥാപന കേന്ദ്രീകൃതമല്ല ജീവനക്കാരുടെ കേന്ദ്രീകൃതമാകണം തങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ജീവനക്കാർക്ക് യഥാർത്ഥ നേട്ടമുണ്ടാക്കാൻ അവർക്ക് കഴിയണം പെർഫോമൻസ് സിസ്റ്റങ്ങൾക്കായി പണം നൽകുക പെർഫോമൻസ് സിസ്റ്റങ്ങൾക്കുള്ള പേയ്മെന്റ് ഞങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഞങ്ങൾ ചില അനുമാനങ്ങൾ ഉണ്ടാക്കുന്നു വ്യക്തിഗത ജീവനക്കാരും വർക്ക് ടീമുകളും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രമല്ല അത് എത്ര നന്നായി ചെയ്യുന്നു എന്നതിലും അവർ സ്ഥാപനത്തിന് എത്രത്തോളം സംഭാവന ചെയ്യുന്നു എന്നതിലും വ്യത്യാസമുണ്ട് അതിനാൽ പ്രകടനത്തിനുള്ള പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് അനുമാനങ്ങൾ ഉണ്ടാക്കുന്നു രണ്ടാമത്തെ അനുമാനം സ്ഥാപനങ്ങളുടെ മൊത്തത്തിലുള്ള പ്രകടനം സ്ഥാപനത്തിലെ വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും പ്രകടനത്തെ വലിയ തോതിൽ ആശ്രയിച്ചിരിക്കുന്നു കമ്പനിയുടെ പ്രകടനം ജീവനക്കാർ അവരുടെ ജോലിയിൽ ചെയ്യുന്നതിന്റെ ഫലമാണ് ഉയർന്ന പ്രകടനക്കാരെ ആകർഷിക്കുന്നതിനും പ്രചോദിപ്പിക്കുന്നതിനും ഒപ്പം എല്ലാ ജീവനക്കാരോടും നീതി പുലർത്താനും ഒരു കമ്പനി ജീവനക്കാർക്ക് അവരുടെ ആപേക്ഷിക പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം നൽകേണ്ടതുണ്ട് എല്ലാവർക്കും ഒരേ ആനുകൂല്യം നൽകാനാവില്ല വ്യത്യസ്തമായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് വ്യത്യസ്ത ആനുകൂല്യങ്ങൾ നൽകേണ്ടതുണ്ട് അതിനാൽ അവർ ചെയ്യുന്ന ജോലിയുടെ അളവ് അനുസരിച്ച് ശരിയാണ് പെർഫോമൻസ് സിസ്റ്റങ്ങൾക്കുള്ള ശമ്പളത്തിന്റെ ചില വെല്ലുവിളികൾ നിങ്ങൾക്ക് പണം ലഭിക്കുന്നത് മാത്രം ചെയ്യുക സിൻഡ്രോം ആണ് ഈ സംവിധാനത്തിന്റെ ഭാഗമായ ജീവനക്കാർക്ക് തങ്ങൾ ചെയ്തതിന് മാത്രമേ പ്രതിഫലം ലഭിക്കൂ എന്ന് തോന്നുന്നു അതിനാൽ അവർ സിസ്റ്റത്തിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളത് നേടുന്നതിന് മാത്രമായി ചെയ്യുന്നു അവർ ഡ്യൂട്ടിക്ക് മുകളിൽ പോകില്ല സിസ്റ്റത്തിൽ നിന്ന് കൂടുതൽ പുറത്തെടുക്കാൻ വേണ്ടിയുള്ള അനീതിപരമായ പെരുമാറ്റങ്ങൾ സഹകരണ മനോഭാവത്തെ പ്രതികൂലമായി ബാധിക്കുന്നു നിർഭാഗ്യവശാൽ പെർഫോമൻസ് സിസ്റ്റങ്ങൾ സഹകരണമല്ല മത്സരമാണ് വർദ്ധിപ്പിക്കുന്നത് കാരണം ഉയർന്ന പ്രകടനം നടത്തുന്നവർക്ക് നൽകാൻ പോകുന്ന ഷെയറിന്റെ ഭാഗത്തിനായി എല്ലാവരും പോരാടുകയാണ് അതിനാൽ ആളുകൾ ചിലപ്പോൾ പരസ്പരം താഴ്ത്തിക്കെട്ടുന്നു നിയന്ത്രണമില്ലായ്മയുണ്ട് ഒരു ദിവസം 20 മണിക്കൂർ ജോലി ചെയ്യുന്ന ചില ആളുകൾ ഉണ്ടാകാം ചിലപ്പോൾ ഇത് കൈവിട്ടുപോയേക്കാം കോൾ ഓഫ് ഡ്യൂട്ടിക്ക് മുകളിലും അപ്പുറത്തും പ്രകടനം നടത്തുന്ന ആളുകളെ നിങ്ങൾക്ക് എത്രത്തോളം പ്രോത്സാഹിപ്പിക്കാനാകും എന്നതിന് നിങ്ങൾ എത്രത്തോളം പ്ലാൻ ചെയ്യുന്നു പ്രകടനം അളക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം കൃത്യമായി കാണാൻ സാധ്യമല്ലെങ്കിൽ പ്രകടനം അളക്കാൻ കഴിയുന്ന ഒരു നമ്പർ നൽകികൊണ്ട് പ്രകടനം അളക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് മുൻ അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രതീക്ഷകളുടെ കൂട്ടമാണ് മനഃശാസ്ത്രപരമായ കരാറുകൾ അതിനാൽ ഞങ്ങൾ ഒരു മനഃശാസ്ത്രപരമായ കരാറിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്കറിയാമോ ഒരു വ്യക്തി ഉയർന്ന പ്രകടനക്കാരനാണെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളിൽപ്പോലും ആ വ്യക്തി ഉയർന്ന പ്രകടനം തുടരും കൂടാതെ ആളുകളെക്കുറിച്ചുള്ള അവരുടെ മുൻകാല പ്രകടനത്തെ അടിസ്ഥാനമാക്കി ഞങ്ങൾ ഒരു കൂട്ടം പ്രതീക്ഷകൾ രൂപപ്പെടുത്തുന്നു ഇത് ഞങ്ങൾക്ക് ഹോണുകളും ഹാലോ ഇഫക്റ്റും ഉള്ളതല്ലെന്ന് നിങ്ങൾക്കറിയാം ഹോണുകളും ഹാലോ ഇഫക്റ്റും അല്ല ഇത് ഞങ്ങൾ ഒരു കൂട്ടം പ്രതീക്ഷകൾ ഉണ്ടാക്കുന്നു ഇത് ഒരു കൊടുക്കലും വാങ്ങലുമാകുന്നു അതിനുശേഷം ഞങ്ങൾ കരാറിനെക്കുറിച്ച് സംസാരിക്കുന്നു അത് ഒരു കൊടുക്കൽ വാങ്ങലാണ് നിങ്ങൾ മുമ്പ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓർഗനൈസേഷന്റെ ഭാഗമാണ് നിങ്ങൾ ഇത്രയധികം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് ജീവനക്കാരനും ഓർഗനൈസേഷനും തമ്മിൽ രൂപപ്പെടുന്ന ഒരു മാനസിക കരാറാണ് പ്രകടനത്തിനുള്ള പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ വളരെയധികം ചെയ്യുന്നുണ്ടെന്ന് ജീവനക്കാരൻ പറയുന്നു അതിനാൽ ഓർഗനൈസേഷൻ എനിക്ക് ഇത് പകരമായി നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വിശ്വാസ്യത വിടവ് വീണ്ടും വെല്ലുവിളിയാകുന്നു ഇത്രയധികം സമ്മർദത്തിൻ കീഴിൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയാത്ത എന്നാൽ ഓർഗനൈസേഷനോട് കൂടുതൽ പ്രതിബദ്ധതയുള്ള ജീവനക്കാരുടെ വിശ്വാസ്യത എങ്ങനെ സ്ഥാപിക്കും ആരാണ് വേണ്ടത്ര വിശ്വസനീയമെന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും അപ്പോൾ ജോലിയുടെ അസംതൃപ്തിയും സമ്മർദ്ദവും പ്രകടന സംവിധാനങ്ങൾക്കുള്ള പെർഫോമൻസ് പേയുടെ ഫലമാണ് ഞാൻ അർത്ഥമാക്കുന്നത് വളരെ ഉയർന്ന പ്രകടനം നടത്താൻ നിങ്ങൾ നിരന്തരം തോക്കിൻ മുനയിലെന്നപോലെയാണെങ്കിൽ നിങ്ങൾ സമ്മർദ്ദത്തിലായിരിക്കാം നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് അതൃപ്തി തോന്നാം നാമെല്ലാവരും മനുഷ്യരാണ് നമുക്ക് എത്ര ദൂരം ഓടാൻ കഴിയും എന്നതിന് പരിമിതികൾ നമുക്കെല്ലാമുണ്ട് നമ്മൾ നിർത്തി വിശ്രമിക്കേണ്ടതുണ്ട് മറ്റുള്ളവരേക്കാൾ കൂടുതൽ സമയം ഓടാൻ കഴിയുന്ന ചില ആളുകളുണ്ട് വിവിധ കാരണങ്ങളാൽ അത് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു നിങ്ങൾക്ക് തോന്നുന്ന ആന്തരിക ഡ്രൈവുകളുടെ സാധ്യത കുറയ്ക്കുകയും നന്നായി ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനാൽ ആന്തരിക ഡ്രൈവ് കുറയുകയും ചെയ്യുന്നു എല്ലാ ബാഹ്യ പ്രേരണകൾക്കും ശേഷമാണ് ഇത് ഇത് നിങ്ങളുടെ മുന്നിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കാരറ്റ് ആണെന്ന് പുറത്ത് നിങ്ങൾക്കറിയാം നിങ്ങൾ ആ കാരറ്റിന് പിന്നാലെ ഓടുകയാണ് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം പ്രവർത്തിക്കുന്നുവോ അത് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂവെന്നും അതിൽ കുറവൊന്നുമില്ലെന്നും നിങ്ങളോട് പറയുന്നു അതിനാൽ നാമെല്ലാവരും മനുഷ്യരാണ് ഞങ്ങൾ മെഷീനുകളല്ല നിങ്ങൾക്ക് അറിയാവുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് തത്ത്വചിന്തകളാൽ ഞങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നില്ല മിക്ക കേസുകളിലും ഞങ്ങൾ യന്ത്രങ്ങളെപ്പോലെയാകാൻ ശ്രമിക്കുന്നു എന്നാൽ ദിവസാവസാനം നമ്മൾ ചില ദിവസങ്ങളിൽ യന്ത്രങ്ങളല്ല മറ്റ് ദിവസങ്ങളിൽ നമ്മുടെ ഉൽപ്പാദനക്ഷമത വളരെ ഉയർന്നതായിരിക്കും അതിനാൽ ഞങ്ങൾ ശരാശരി നോക്കുകയാണ് ശമ്പളത്തെക്കുറിച്ചുള്ള മുഴുവൻ ആശയവും ഒരു വ്യക്തിയുടെ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ടിന്റെ അല്ലെങ്കിൽ യഥാർത്ഥ ഉൽപാദനത്തിന്റെ ശരാശരിയെ കേന്ദ്രീകരിക്കുന്നു അങ്ങനെയല്ല അതിനാൽ ഒരു ദിവസം നിങ്ങൾ 20 മണിക്കൂർ ജോലി ചെയ്യുന്നു നിങ്ങൾക്ക് ഇത്രയധികം ലഭിക്കുന്നു മറ്റൊരു ദിവസം നിങ്ങൾക്ക് 5 മണിക്കൂർ ജോലി ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് അൽപ്പം ലഭിക്കുന്നു അങ്ങനെ അത് അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കും ഇത് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സ്ഥിരമായ സമ്മർദ്ദം സൃഷ്ടിക്കും അതിനാൽ ഇതെല്ലാം ബാഹ്യമായി നയിക്കപ്പെടുന്നു അത് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് പകരം നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ എന്ന് നിങ്ങൾക്കറിയാം ഇന്റേണൽ ഇക്വിറ്റി കൈവരിക്കുന്നതിന് ജോലി അടിസ്ഥാനമാക്കിയുള്ള നഷ്ടപരിഹാര പദ്ധതികൾ സൃഷ്ടിക്കുന്നതിനുള്ള ചില സ്റ്റെപ്പുകൾ ഓരോ ജോലിയും സ്ഥാപനത്തിന് എത്രത്തോളം പ്രധാനമാണ് എന്നതിന്റെ യുക്തിസഹമായ ക്രമവും വ്യവസ്ഥാപിതവുമായ വിധി തെളിയിക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു പ്രക്രിയയാണ് ജോലി വിലയിരുത്തൽ നിങ്ങൾ ഇത് നടത്തുന്നു ഞങ്ങൾ മുൻ പ്രഭാഷണത്തിൽ ഇക്വിറ്റിയെക്കുറിച്ച് സംസാരിച്ചു എന്നാൽ ഈ ഇക്വിറ്റി എങ്ങനെ നേടാം നിങ്ങൾ ജോലി വിശകലനം ചെയ്യുക വിവരണങ്ങൾ എഴുതുക ജോലിയുടെ പ്രത്യേകതകൾ നിർണ്ണയിക്കുക നഷ്ടപരിഹാരം നൽകാവുന്ന ഘടകങ്ങൾ ഉപയോഗിച്ച് മുൻകൂട്ടി നിശ്ചയിച്ച സിസ്റ്റം ഉപയോഗിച്ച് എല്ലാ ജോലികളുടെയും മൂല്യം വിലയിരുത്തുന്നതിന് നിങ്ങൾ ആദ്യം ജോലി വിശകലനം നടത്തുന്നു മുകളിൽ പറഞ്ഞവയെ അടിസ്ഥാനമാക്കി നിങ്ങൾ ഒരു തൊഴിൽ ശ്രേണി സൃഷ്ടിക്കുന്നു തുടർന്ന് നിങ്ങൾ ഒരു റാങ്കിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ഗ്രേഡ് ലെവലുകൾ അനുസരിച്ച് ജോലികളെ തരംതിരിക്കുന്നു അതായത് പോയിന്റ് സിസ്റ്റം ഉപയോഗിക്കാതെ ഗ്രേഡുകളായി ജോലികൾ തരംതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോളിസി ക്യാപ്ചർ ഉപയോഗിച്ച് ഫാക്ടർ താരതമ്യം ഉപയോഗിക്കുക ഗണിതശാസ്ത്ര വിശകലനം ഉപയോഗിച്ച് സ്ഥാപനത്തിന്റെ നിലവിലുള്ള സമ്പ്രദായങ്ങളെ അടിസ്ഥാനമാക്കി ഓരോ ജോലിയുടെയും ആപേക്ഷിക മൂല്യം കണക്കാക്കുന്നതിനെയാണ് പോളിസി ക്യാപ്ചറിംഗ് സൂചിപ്പിക്കുന്നത് അതിനാൽ നിങ്ങൾ ഓരോ ജോലിയും വിലയിരുത്തുകയും ഓരോ ജോലിയിലെയും മൂല്യനിർണ്ണയത്തിലെ സമാനതയ്ക്ക് ആന്തരിക ഇക്വിറ്റി സൃഷ്ടിക്കുകയും ചെയ്യുന്നു ജോലി അടിസ്ഥാനമാക്കിയുള്ള നഷ്ടപരിഹാര പദ്ധതികളിൽ ചില പോരായ്മകളുണ്ട് ജോലി അടിസ്ഥാനമാക്കിയുള്ള നഷ്ടപരിഹാര പദ്ധതികൾ ബിസിനസിന്റെ സ്വഭാവവും അതിന്റെ തനതായ പ്രശ്നങ്ങളും കണക്കിലെടുക്കുന്നില്ല അതിനാൽ അവ ആത്മനിഷ്ഠവും ഏകപക്ഷീയവുമാകാം പുതിയ സംഭവവികാസങ്ങൾക്കൊപ്പം ജോലികൾ കൂടുതൽ വിശാലമായി നിർവചിക്കപ്പെടുകയും സാമാന്യവൽക്കരിക്കപ്പെടുകയും ചെയ്യും അതിനാൽ ജോലികളുടെ ആപേക്ഷിക പ്രാധാന്യത്തെ വിലയിരുത്തുന്നത് ബുദ്ധിമുട്ടാണ് മറ്റൊന്നിനേക്കാൾ പ്രധാനപ്പെട്ട ജോലി ഏതെന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും അവർ ബ്യൂറോക്രാറ്റിക്കും മെക്കാനിസ്റ്റിക്കും വഴക്കമില്ലാത്തവരുമാണ് അതിനാൽ വേരിയബിൾ പേ എന്ന ആശയം നടപ്പിലാക്കുന്നത് ബുദ്ധിമുട്ടാണ് കൂടാതെ സമ്പദ്വ്യവസ്ഥയിലെ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനും ബുദ്ധിമുട്ടാണ് സമ്പദ്വ്യവസ്ഥയിലെ മാറ്റങ്ങൾ ജോലികൾ അല്ലെങ്കിൽ ജോലിയുടെ മൂല്യം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിലെ വ്യത്യാസത്തിന് ഇടയാക്കും മാർക്കറ്റ് സർവേകളിൽ നിന്ന് ലഭിച്ച വേതനത്തിന്റെയും ശമ്പളത്തിന്റെയും ഡാറ്റ നിർണായകമല്ല അപ്പോൾ നിങ്ങൾക്കെങ്ങനെ അറിയാം ആരാണ് അതിന് എത്ര പണം നൽകുന്നത് ഏത് ഓർഗനൈസേഷൻ അതിന്റെ ജീവനക്കാർക്ക് എത്ര പണം നൽകുന്നു ഈ കാര്യങ്ങൾ പലതവണ വെളിപ്പെടുത്തിയിട്ടില്ല കൂടാതെ ദ്വിതീയ വിവരങ്ങൾ വിശ്വസനീയമല്ല അതിനാൽ ജോലി അടിസ്ഥാനമാക്കിയുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ജീവനക്കാർക്ക് എത്ര തുക നൽകണമെന്ന് നിർണ്ണയിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ആപേക്ഷിക മൂല്യം നിർണ്ണയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇക്വിറ്റിയെക്കുറിച്ചുള്ള ജീവനക്കാരുടെ ധാരണ ഇക്വിറ്റിയെക്കുറിച്ചുള്ള തൊഴിലുടമകളുടെ ധാരണയേക്കാൾ കൂടുതലാണ് ഇപ്പോൾ ഈ പദ്ധതികൾ തൊഴിലാളി സൌഹൃദമല്ല അവളോ അവനോ നീതിയോടെയാണ് പെരുമാറുന്നതെന്ന് ജീവനക്കാരന് തോന്നിയാൽ ഒരു ജീവനക്കാരൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യും ഞങ്ങൾ ജോലി അടിസ്ഥാനമാക്കിയുള്ള നഷ്ടപരിഹാര പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അവർക്ക് എത്ര ശമ്പളം നൽകണം എന്നതിനെക്കുറിച്ചുള്ള ജീവനക്കാരുടെ ധാരണയെക്കുറിച്ചല്ല ഞങ്ങൾ സംസാരിക്കുന്നത് സംഘടനയാണ് ഇത് തീരുമാനിക്കുന്നത് അത് ഒരു പ്രശ്നമാകാം ഒരു ഓപ്പൺ മാർക്കറ്റിൽ ജോലിക്കായി മത്സരിക്കുകയും ക്രിയേറ്റീവ് മൾട്ടി ടാസ്ക്കർമാരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അദ്ധ്യാപകരേയും ഗവേഷകരേയും പോലുള്ള ഫ്രീലാൻസർമാർക്കും വിജ്ഞാന പ്രവർത്തകർക്കും ഇത് സുഖകരമല്ല ഈ പ്ലാനുകൾ അളക്കാവുന്ന ഔട്ട്പുട്ടുകളുള്ള ആവർത്തിച്ചുള്ള വളരെ വ്യക്തമായി നിർവചിക്കപ്പെട്ട അതിരുകളുള്ള ജോലികൾക്ക് കൂടുതൽ സഹായകമാണ് പരിശീലനത്തിനുള്ള ചില നിർദ്ദേശങ്ങൾ ശമ്പളം ഉറപ്പാക്കുന്ന ജീവനക്കാരുടെ ഇൻപുട്ടുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിങ്ങൾ തന്ത്രപരമായി ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ജോലി അടിസ്ഥാനമാക്കിയുള്ള നഷ്ടപരിഹാര പദ്ധതി നടപ്പിലാക്കാൻ പദ്ധതിയിടുകയാണെങ്കിൽ ഈ പ്ലാനുകൾ എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ ജീവനക്കാരെ അറിയിക്കുക ഉത്തരവാദിത്തങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുമ്പോൾ ഓരോ ജോലിയുടെയും ശമ്പള പരിധി വർദ്ധിപ്പിക്കുക അതിനാൽ നിങ്ങൾ ഉത്തരവാദിത്തങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുമ്പോൾ വ്യത്യസ്ത ജോലികൾക്കായി നിങ്ങൾ വ്യത്യസ്ത ആളുകൾക്ക് നൽകുന്ന ശമ്പളത്തിന്റെ പരിധി വർദ്ധിപ്പിക്കുക ജോലി ബാൻഡിംഗിനായുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ജോലികൾ ബാൻഡ് ചെയ്യുന്നത് നിങ്ങൾ അവയെ വ്യത്യസ്ത ബാൻഡുകളായി വ്യത്യസ്ത വിഭാഗങ്ങളാക്കുന്നു ജോലി മൂല്യനിർണ്ണയ സംവിധാനം അത് ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ തെളിവുകൾ ഇടയ്ക്കിടെ പരിശോധിക്കുക ജീവനക്കാരുടെ വേതനത്തിന്റെ അനുപാതം വിപുലീകരിക്കുക അത് വിജ്ഞാന തൊഴിലാളികൾ എന്ന് വിളിക്കപ്പെടുന്നവർക്കായി വികസിപ്പിച്ച നയങ്ങൾ വികസിപ്പിച്ചെടുക്കുക അത് സ്ഥാപനത്തിൽ ജോലിയിൽ തുടരുമ്പോൾ തന്നെ അവർ പിന്തുടരാനിടയുള്ള പണമടച്ചുള്ള ബാഹ്യ അവസരങ്ങളുടെ തരങ്ങൾ വ്യക്തമാക്കുന്നു വ്യത്യസ്ത തരത്തിലുള്ള ജീവനക്കാർക്കായി വ്യത്യസ്ത തരത്തിലുള്ള ഗോവണികൾക്കായി ഡ്യുവൽ കരിയർ ഗോവണി സ്ഥാപിക്കുക അതിനാൽ മാനേജ്മെന്റ് റാങ്കുകളിലേക്കോ ഓർഗനൈസേഷണൽ ശ്രേണിയിലേക്കോ മാറുന്നത് ശമ്പളത്തിൽ ഗണ്യമായ വർദ്ധനവ് നേടാനുള്ള ഒരേയൊരു മാർഗ്ഗമല്ല അതിനാൽ ഒരേ സമയം നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ടാകാം കൂടാതെ ഇരട്ട കരിയർ ഗോവണി ഉള്ളത് അത്തരം ജീവനക്കാരെ സിസ്റ്റത്തിൽ കയറാൻ സഹായിക്കുകയും ഇപ്പോഴും പ്രചോദനം അനുഭവിക്കുകയും ചെയ്യും പെർഫോമൻസ് സിസ്റ്റങ്ങൾക്കായുള്ള ശമ്പളത്തിന്റെ വെല്ലുവിളികളെ നിങ്ങൾ എങ്ങനെ നേരിടും നിങ്ങൾക്ക് ശമ്പളവും പ്രകടനവും ഉചിതമായ രീതിയിൽ ലിങ്ക് ചെയ്യാൻ കഴിയും പീസ് റേറ്റ് സിസ്റ്റങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റിന് തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്ന സിസ്റ്റങ്ങളെ പരാമർശിക്കുന്നു അതിനാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെയോ സേവനത്തിന്റെയോ ഓരോ യൂണിറ്റിനും തൊഴിലാളികൾക്ക് പ്രത്യേകം വേതനം നൽകുന്നു വിശാലമായ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് പെർഫോമൻസിനായി വേതനം ഉപയോഗിക്കാം പ്രകടനം ഒരു മാറ്റമുണ്ടാക്കുമെന്ന വിശ്വാസം പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾക്ക് ജീവനക്കാരുടെ വിശ്വാസം വളർത്തിയെടുക്കാൻ കഴിയും അതിനാൽ പ്രകടനം മൂല്യവത്തായതാക്കുക പ്രകടനത്തിനായി അവരെ വിലയിരുത്തുന്നത് സഹായകരമാണെന്ന് ജീവനക്കാരെ മനസ്സിലാക്കാൻ ജീവനക്കാരെ സഹായിക്കുക റിവാർഡുകളുടെ ഒന്നിലധികം പാളികൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് ജീവനക്കാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാം ധാർമ്മികമായി പ്രവർത്തിക്കുന്നതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയാം പെർഫോമൻസ് സിസ്റ്റങ്ങൾക്കായുള്ള ശമ്പളം നിങ്ങൾക്ക് അറിയാം ജീവനക്കാർ കഴിയുന്നത്ര ധാർമ്മികമായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന വിശ്വാസം നിരന്തരം ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു അവർ ചെയ്യുന്ന ജോലിയിൽ അവരെ വ്യാപൃതരാക്കാൻ പ്രചോദനവും സാമ്പത്തികേതര പ്രോത്സാഹനങ്ങളും ഉപയോഗിക്കുക പെർഫോമൻസ് പ്ലാനുകൾക്കുള്ള ചില തരത്തിലുള്ള പേ നിങ്ങൾക്ക് മെറിറ്റ് പേ എന്ന വ്യക്തിഗത അധിഷ്ഠിത പ്ലാനുകൾ ഉണ്ട് ഞങ്ങൾ ഇത് നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് സാധാരണയായി വർഷത്തിലൊരിക്കൽ നൽകുന്ന അടിസ്ഥാന ശമ്പളത്തിന്റെ വർദ്ധനവ് ഇതിൽ ഉൾപ്പെടുന്നു നിങ്ങൾക്ക് ബോണസ് പ്രോഗ്രാമുകളും ലംപ് സം പേയ്മെന്റുകളും ഉണ്ടാകാം അത് ഒരു തവണ നിങ്ങൾക്ക് മൂർത്തമായ സമ്മാനങ്ങളായ അവാർഡുകൾ നേടാം അതിനാൽ മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു ഞാൻ ഇപ്പോഴും വളരെ വേഗത്തിൽ വീണ്ടും അതിലൂടെ കടന്നുപോകും എന്തായാലും അതിനുള്ള സമയമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതിനാൽ ഈ സ്ലൈഡുകൾ ഞാൻ നിങ്ങളുമായി പങ്കിടും പ്ലാന്റ് വൈഡ് പ്ലാനുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒന്നാണ് പ്ലാന്റ് വൈഡ് പ്ലാനുകൾ മുഴുവൻ പ്ലാന്റിന്റെയും യൂണിറ്റിന്റെയും പ്രകടനത്തെ അടിസ്ഥാനമാക്കി ഒരു പ്ലാന്റിലോ ബിസിനസ് യൂണിറ്റിലോ ഉള്ള എല്ലാ തൊഴിലാളികൾക്കും പ്രതിഫലം നൽകുന്നു ഉൽപ്പാദനക്ഷമത കാര്യക്ഷമത പ്രതിബദ്ധത എന്നിവയാണ് പ്ലാന്റ് വൈഡ് പ്ലാനുകളുടെ ഗുണങ്ങൾ കൂടാതെ കുറഞ്ഞ പ്രകടനം നടത്തുന്നവരുടെ സംരക്ഷണമാണ് ദോഷങ്ങൾ പ്ലാന്റ് വൈഡ് പ്ലാനുകൾക്ക് അനുകൂലമായ ചില വ്യവസ്ഥകൾ ദൃഢമായ വലിപ്പം സാങ്കേതികവിദ്യ ചരിത്രപരമായ പ്രകടനം കോർപ്പറേറ്റ് സംസ്കാരം ഉൽപ്പന്ന വിപണിയുടെ സ്ഥിരത എന്നിവയാണ് കോർപ്പറേറ്റ് വൈഡ് പ്ലാനുകൾ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന പ്ലാനുകളാണ് അവിടെ നിങ്ങൾ കോർപ്പറേഷന്റെ മുഴുവൻ പ്രകടനത്തെയും അടിസ്ഥാനമാക്കി ജീവനക്കാർക്ക് പ്രതിഫലം നൽകുന്നു ഉദാഹരണത്തിന് ലാഭം പങ്കിടൽ ജീവനക്കാരുടെ ഓഹരി ഉടമസ്ഥാവകാശ പദ്ധതികൾ തുടങ്ങിയവ കോർപ്പറേറ്റ് വൈഡ് പ്ലാനുകളുടെ നേട്ടങ്ങൾ സ്ഥാപനത്തിന് വർദ്ധിച്ച സാമ്പത്തിക വഴക്കം ജീവനക്കാരുടെ പ്രതിബദ്ധത നികുതി ആനുകൂല്യങ്ങൾ എന്നിവയാണ് കോർപ്പറേറ്റ് വൈഡ് പ്ലാനുകളുടെ പോരായ്മകൾ ESOP കളിലെന്നപോലെ ജീവനക്കാർക്കും കാര്യമായ അപകടസാധ്യതയുണ്ട് മാക്രോ ഇക്കണോമിക് ശക്തികളോട് ഉയർന്ന എക്സ്പോഷർ ഉണ്ടാകാം ഉൽപ്പാദനക്ഷമതയിലും വലിയ സ്വാധീനം ഉണ്ടായേക്കാം ദീർഘകാല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം കോർപ്പറേറ്റ് വൈഡ് പ്ലാനുകളെ അനുകൂലിക്കുന്ന ചില വ്യവസ്ഥകൾ സ്ഥാപനത്തിന്റെ വലുപ്പം ബിസിനസിന്റെ വിവിധ ഭാഗങ്ങളുടെ പരസ്പരാശ്രിതത്വം വിപണി സാഹചര്യങ്ങളും മറ്റ് പ്രോത്സാഹനങ്ങളുടെ സാന്നിധ്യവും ഉണ്ടാകാം ഈ പ്രഭാഷണത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ നിർത്തുന്നു കുറച്ച് സ്ലൈഡുകൾ ഉണ്ട് ഇത് ഞാൻ അഭിസംബോധന ചെയ്തിട്ടില്ല ഞാൻ ഈ സ്ലൈഡുകൾ നിങ്ങളുമായി പങ്കിടും അവ സ്വയം വിശദീകരിക്കുന്നതാണ് അതിനാൽ പ്രകടന സംവിധാനങ്ങൾക്കായുള്ള വ്യക്തിഗത വേതനത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അവ ചർച്ച ചെയ്യുകയും പ്രകടന പദ്ധതികൾക്ക് പണം നൽകുകയും ചെയ്യുന്നു അവ വളരെ സ്വയം വിശദീകരിക്കുന്നവയാണ് ഫോറത്തിലെ ഈ വിവരങ്ങളെക്കുറിച്ച് എന്നെ ബന്ധപ്പെടാൻ നിങ്ങൾക്ക് സ്വാഗതം ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രതികരിക്കും എന്നാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചതിന് വളരെ നന്ദി അടുത്ത പ്രഭാഷണത്തിൽ ഞങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ കൂടുതൽ പഠിക്കുന്നത് തുടരും